നമ്മൾ ഈ കോഴ്സിന്റെ അവസാന തിയറി ലെക്ച്ചറിലാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ മീൻസ് ക്ലസ്റ്ററിംഗിനെക്കുറിച്ചാണ് ഈ ലെക്ച്ചറിനെത്തുടർന്ന് ഈ കോഴ്സിന്റെ ടിഎമാരുടെ ഒരു കേസ് സ്റ്റഡിയിൽ ഈ സാങ്കേതികവിദ്യയുടെ ഒരു പ്രദർശനം ഉണ്ടായിരിക്കും അപ്പോൾ K മീൻസ് ക്ലസ്റ്ററിംഗ് എന്താണ് അതിനാൽ K മീൻസ് ക്ലസ്റ്ററിംഗ് എന്നത് നിങ്ങൾക്ക് ഒരു നിശ്ചിത എണ്ണം നിരീക്ഷണങ്ങൾ ക്ലസ്റ്റർ ചെയ്യാനോ പാർട്ടീഷൻ ചെയ്യാനോ ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക് ആണ് നമുക്ക് N നിരീക്ഷണങ്ങളെ K ക്ലസ്റ്ററുകളായി പറയാം K എന്ന ക്ലസ്റ്ററുകളുടെ എണ്ണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരവധി കേസുകളിൽ അൽഗോരിതം പ്രവർത്തിപ്പിക്കുകയും ഈ ഡാറ്റ വിഭജിക്കേണ്ട ക്ലസ്റ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം എത്രയാണെന്ന് കണ്ടെത്തുകയും ചെയ്യാം കുറച്ച് അർത്ഥശാസ്ത്രം മാത്രം ക്ലാസിഫിക്കേഷൻ എന്ന തലക്കെട്ടിൽ ഞാൻ ഇവിടെ ക്ലസ്റ്ററിംഗ് പഠിപ്പിക്കുന്നു പൊതുവായി നമ്മൾ കാണുന്ന സാധാരണ ക്ലാസ്സിഫിക്കേഷൻ അൽഗോരിതങ്ങൾ സാധാരണയായി സൂപ്പർവൈസ് ചെയ്യപ്പെടുന്ന അൽഗരിതങ്ങളാണ് അതായത് ഡാറ്റയെ വ്യത്യസ്ത ക്ലാസുകളായി വിഭജിക്കുകയും ഈ ലേബലുകൾ പൊതുവെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇവ ലേബൽ ചെയ്ത ഡാറ്റാ പോയിന്റുകളാണ് ഈ വ്യത്യസ്ത ക്ലാസുകൾക്കിടയിൽ ഡിസിഷൻ ബൌണ്ടറികൾ കണ്ടെത്തുക എന്നതാണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതത്തിന്റെ ജോലി അതിനാൽ അവ സൂപ്പർവൈസ്ഡ് അൽഗോരിതങ്ങളാണ് അതിനാൽ അതിനൊരു ഉദാഹരണം നമ്മൾ മുമ്പ് കണ്ട K നിയറെസ്റ് നെയിബർ ആണ് എവിടെയാണോ നമ്മൾ ഡാറ്റ ലേബൽ ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡാറ്റ ലഭിക്കുമ്പോൾ അത് ഉൾപ്പെടുന്ന ഏറ്റവും സാധ്യതയുള്ള ക്ലാസിലേക്ക് നിങ്ങൾ അത് ബിൻ ചെയ്യുന്നു എന്നിരുന്നാലും പല ക്ലസ്റ്ററിംഗ് അൽഗോരിതങ്ങളും നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് N നിരീക്ഷണങ്ങൾ ഉണ്ട് എന്ന അർത്ഥത്തിൽ സൂപ്പർവൈസ്ഡ് ചെയ്യാത്ത അൽഗരിതങ്ങളാണ് എന്നാൽ അവ വ്യത്യസ്ത ക്ലാസുകളായി ലേബൽ ചെയ്തിട്ടില്ല അതിനാൽ ക്ലസ്റ്ററിംഗിനെ ക്ലാസിഫിക്കേഷനിൽ നിന്ന് അൽപ്പം വ്യത്യസ്തമായി നിങ്ങൾ ചിന്തിച്ചേക്കാം അവിടെ ചില പൊതുവായ സ്വഭാവങ്ങളോ ആട്രിബ്യൂട്ടുകളോ പങ്കിടുന്ന ഡാറ്റ പോയിന്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണ് എന്നിരുന്നാലും ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും തരത്തിലുള്ള വർഗ്ഗീകരണമോ ഡാറ്റയെ ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നതോ ആയി ഞങ്ങൾ ഇപ്പോഴും കരുതുന്നു അതുകൊണ്ട് പ്രയോറി എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നിരുന്നാലും ഒരു ക്ലസ്റ്ററിംഗ് സാങ്കേതികത ഉപയോഗപ്രദമാകുന്നതിന് നിങ്ങൾ ഈ ഡാറ്റയെ രണ്ടാം ഘട്ടത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിച്ചുകഴിഞ്ഞാൽ ഈ ഇന്റിവിജ്വൽ ഗ്രൂപ്പുകളെ മനസ്സിലാക്കുന്നതിനും ലേബൽ ചെയ്യുന്നതിനും ഇതിന് ഓരോ ഗ്രൂപ്പിൽ നിന്നും പോപ്പ് ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചില സവിശേഷതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ അർത്ഥത്തിൽ അതിനെ സൂപ്പർവൈസിങ് ഇല്ലാതെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി വർഗ്ഗീകരിക്കുന്നതിനെ എനിക്ക് വിളിക്കാവുന്ന ചില ടൈപ്പ് വർഗ്ഗീകരണമായി ഞങ്ങൾ ഇപ്പോഴും കരുതുന്നു അതിനാൽ സൂപ്പർവൈസ്ഡ് അല്ലാത്ത ഏറ്റവും ലളിതമായ അൽഗോരിതങ്ങളിലൊന്നാണ് കെ മീൻസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയിൽ നിലവിലുള്ള ക്ലസ്റ്ററുകളുടെ എണ്ണമോ വിഭാഗങ്ങളുടെ എണ്ണമോ നൽകിയാൽ ഈ അൽഗോരിതം ഈ N നിരീക്ഷണങ്ങളെ ഈ വിഭാഗങ്ങളായി വിഭജിക്കും ഇപ്പോൾ ഈ അൽഗോരിതം എല്ലാ ഡിസ്റ്റൻസ് മെട്രിക്സിനും നന്നായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വീണ്ടും ഒരു ഡിസ്റ്റൻസ് മെട്രിക് ആവശ്യമാണ് കാരണം സാമ്പിളുകൾക്കായി നമുക്ക് എവിടെയാണ് ഒരു അർത്ഥം വ്യക്തമാക്കാൻ കഴിയുകയെന്നത് നമ്മൾ കാണും അതിനാൽ ഞങ്ങൾ ഡാറ്റാ സയൻസിനായുള്ള ഒപ്റ്റിമൈസേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മെഷീൻ ലേണിംഗിൽ നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാത്തരം അൽഗോരിതങ്ങളും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ അൽഗരിതങ്ങൾക്ക് ചില ഒപ്റ്റിമൈസേഷൻ അടിസ്ഥാനം ഉണ്ടാകും അതിനാൽ K മീൻസ് ക്ലസ്റ്ററിംഗ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതെന്താണെന്ന് വിവരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലെങ്കിൽ K മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം നയിക്കുന്ന ലക്ഷ്യം എന്താണ് അതിനാൽ മുമ്പത്തെ സ്ലൈഡിൽ ഞങ്ങൾ വിവരിച്ചതുപോലെ നമുക്ക് x1 മുതൽ xN വരെയുള്ള N നിരീക്ഷണങ്ങൾ ഉണ്ട് ഇതിനെ K ക്ലസ്റ്ററുകളായി വിഭജിക്കാൻ നമ്മൾക്ക് അൽഗോരിതം ആവശ്യമാന് അപ്പോൾ നമ്മൾ അതിനെ K ക്ലസ്റ്ററുകളായി വിഭജിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ നമ്മൾ s1 മുതൽ sk വരെയുള്ള കെ ക്ലസ്റ്ററുകൾ ജെനെറേറ്റ് ചെയ്യണം കൂടാതെ ഈ ഡാറ്റ ഈ സെറ്റിന്റേതാണെന്നും ഈ ഡാറ്റ മറ്റേ സെറ്റിന്റേതാണെന്നും നമുക്ക് പറയാം അതിനാൽ വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകുന്നതിന് നിങ്ങൾക്ക് ഈ നിരീക്ഷണങ്ങൾ x1 x2 xN വരെ ഉണ്ടെന്ന് പറയാം കൂടാതെ ഒരു വാദത്തിനായി നമ്മൾ ഈ ഡാറ്റയെ രണ്ട് ക്ലസ്റ്ററുകളായി വിഭജിക്കുന്നുവെന്നും നമുക്ക് എടുക്കാം ശരി അതിനാൽ ഒരു ക്ലസ്റ്ററിന് ഒരു സെറ്റ് ക്ലസ്റ്റർ 1 മറ്റൊരു ക്ലസ്റ്റർ 2 ന് മറ്റൊരു സെറ്റ് എന്നിവ ഉണ്ടാകാൻ പോകുന്നു ഇപ്പോൾ കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിന്റെ ജോലി ഈ രണ്ട് ബിന്നുകളിലേക്കും ഈ ഡാറ്റ പോയിന്റുകൾ ഇടുക എന്നതാണ് അതിനാൽ ഇത് ഇവിടെ പോകാം x3 ഇവിടെ പോകാം xN ഇവിടെ പോകാം ഒരുപക്ഷേ ഒരു x4 ഇവിടെ പോകാം എന്നിങ്ങനെ നമുക്ക് പറയാം അതിനാൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഡാറ്റ പോയിന്റുകളെല്ലാം എടുത്ത് രണ്ട് ബിന്നുകളിൽ ഇടുക എന്നതാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു ക്ലസ്റ്ററിംഗ് അൽഗോരിതത്തിൽ നിങ്ങൾ ശരിക്കും തിരയുന്നത് ഈ ബിന്നിലുള്ള എല്ലാ ഡാറ്റാ പോയിന്റുകളും ഉറപ്പാക്കുക എന്നതാണ് ഞാൻ ഇവിടെ രണ്ട് ഡാറ്റ പോയിന്റുകളും എടുക്കുകയാണെങ്കിൽ എന്ന അർത്ഥത്തിൽ ചില സ്വഭാവസവിശേഷതകൾ ഉണ്ട് ഈ രണ്ട് ഡാറ്റാ പോയിന്റുകളും കൂടുതൽ ഇഷ്ടമുള്ളതും ഈ രണ്ട് ഡാറ്റാ പോയിന്റുകളും പരസ്പരം സാമ്യമുള്ളതും ആയിരിക്കും എന്നാൽ ഞാൻ ഇവിടെയും ഒരു ഡാറ്റ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവ ചില അർത്ഥത്തിൽ പരസ്പരം വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾ ഈ രീതിയിൽ ഡാറ്റ ക്ലസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഡാറ്റ പോയിന്റുകളെല്ലാം ചില പൊതുവായ സ്വഭാവസവിശേഷതകൾ പങ്കിടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നിടത്ത് നമുക്ക് ഉപയോഗിക്കാനാകുന്ന ഒന്നാണിത് തുടർന്ന് ആ സ്വഭാവസവിശേഷതകൾ എന്താണെന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ചില വിലയിരുത്തലുകൾ നടത്താൻ പോകുന്നു അതിനാൽ ഞങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനിപ്പറയുന്നവയാണ് ഇവ കഴിയുന്നത്ര ഒതുക്കമുള്ളതായി നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഡാറ്റാ പോയിന്റുകൾ ഗ്രൂപ്പുചെയ്തിരിക്കുന്നതുപോലെ അത് ക്ലസ്റ്ററിനുള്ളിൽ ചെറുതാക്കുന്നതിന് സ്ക്വയർ ദൂരങ്ങളുടെ ആകെത്തുകയായി വിവർത്തനം ചെയ്യും അതിനാൽ ഇതൊരു കോംപാക്റ്റ് ഗ്രൂപ്പായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ചെയ്യുന്നതിനുള്ള ഒരു ഗണിതശാസ്ത്ര രീതി ഇനിപ്പറയുന്നതായിരിക്കും അതിനാൽ എനിക്ക് K സെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ഇതെല്ലാം ചേർക്കുന്നു നിങ്ങൾ സെറ്റ് പ്രകാരം സജ്ജീകരിച്ച ഈ ഡാറ്റയ്ക്കെല്ലാം ഒരു ശരാശരി കണക്കാക്കിയാൽ ഡാറ്റയും മീൻ സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം ഒരു സാധാരണ അർത്ഥത്തിൽ ഓരോ ക്ലസ്റ്ററിനും കഴിയുന്നത്ര കുറഞ്ഞതാണെന്നും കൂടാതെ നിങ്ങൾക്ക് K ക്ലസ്റ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ അവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഈ മുഴുവൻ ഫങ്ക്ഷനുകൾക്കും എനിക്ക് ഒരു മിനിമം വേണമെന്ന് പറയുകയും ചെയ്യാം അതിനാൽ ഇത് കെ മീൻസ് ക്ലസ്റ്ററിംഗിന്റെ അടിസ്ഥാന ആശയമാണ് അതിനാൽ അവിടെ ഒരു ഡബിൾ സമ്മേഷൻ ഉണ്ട് ആദ്യ സമ്മേഷൻ ഒരു സെറ്റിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ എല്ലാ ഡാറ്റയുടെയും ആണ് ആ സെറ്റിന്റെ ശരാശരി ഞാൻ കണക്കാക്കും ഈ സെറ്റിലുള്ള ഈ ക്ലസ്റ്ററിനുള്ളിലെ ദൂരം x ഞാൻ അർത്ഥമാക്കുന്നത് ഒരു ക്ലസ്റ്ററിന് മാത്രമല്ല എല്ലാ ക്ലസ്റ്ററുകൾക്കും ചെറുതാക്കുന്നു എന്നാണ് ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തും അതിനാൽ നിങ്ങൾ ഈ ലക്ഷ്യം നിഷേധിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഇത് ഒപ്റ്റിമൈസ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ μi എന്നത് സെറ്റിലെ എല്ലാ പോയിന്റുകളുടെയും ശരാശരിയാണ് ഇനി K means പോലുള്ള ഒരു അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഇത് വളരെ ലളിതമായ ഒരു ആശയമാണ് അതിനാൽ വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇത് വീണ്ടും വിശദീകരിക്കാം നമുക്ക് x y എന്നിവയിൽ താൽപ്പര്യമുള്ള രണ്ട് അളവുകൾ ഉണ്ടെന്നും അവിടെ എട്ട് നിരീക്ഷണങ്ങൾ ഉണ്ടെന്നും പറയാം അതിനാൽ ഇത് ഒരു ഡാറ്റ പോയിന്റാണ് ഇത് മറ്റൊരു ഡാറ്റ പോയിന്റാണ് അതിനാൽ അവിടെ 8 ഡാറ്റ പോയിന്റുകൾ ഉണ്ട് നിങ്ങൾ ഇത് പ്ലോട്ട് ചെയ്താൽ നമ്മൾ ക്ലസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കാണും അതിനാൽ ഈ ഡാറ്റക്ക് രണ്ട് ക്ലസ്റ്ററുകളായുള്ള വളരെ വ്യക്തമായ വേർതിരിവ് ഉണ്ടെന്ന് നിങ്ങൾ കരുത്തേണ്ടതാണ് ഇപ്പോൾ ഡാറ്റ സയൻസിനെക്കുറിച്ചുള്ള മുൻ ലെക്ച്ചറുകളൊന്നിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ട് ഡയമെൻഷനുകളിൽ കാണാൻ വളരെ എളുപ്പമാണ് എന്നാൽ മിനിറ്റുകളുടെ എണ്ണം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ഡാറ്റയുടെ ഓർഗനൈസേഷന്റെ സങ്കീർണ്ണത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കണ്ടെത്തലും ക്ലസ്റ്ററുകളുടെ എണ്ണവും അത്ര വ്യക്തമല്ലെന്ന് നിങ്ങൾ കണ്ടെത്തും അത് ഈ ലെക്ച്ചറിന്റെ അവസാനം തന്നെ കാണാം ഏത് സാഹചര്യത്തിലും ഈ ഡാറ്റയെ വ്യത്യസ്ത ക്ലസ്റ്ററുകളായി തിരിച്ചറിയാനോ വിഭജിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയാം കൂടാതെ ഈ ഡാറ്റയെ രണ്ട് ക്ലസ്റ്ററുകളായി വിഭജിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് ഈ ഉദാഹരണം ഉപയോഗിച്ച് ചിത്രീകരണത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഈ ഡാറ്റ രണ്ട് ക്ലസ്റ്ററുകളായി വിഭജിക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ തുടക്കത്തിൽ നമുക്ക് വിവരങ്ങൾ ഒന്നും തന്നെയില്ല അതിനാൽ ഇതെല്ലാം ഒരു ക്ലസ്റ്ററിന്റേതാണെന്ന് നമുക്കറിയില്ല ഈ ഡാറ്റ പോയിന്റുകളെല്ലാം മറ്റൊരു ക്ലസ്റ്ററിന്റേതാണ് അത് രണ്ട് ക്ലസ്റ്ററുകളാകുമെന്ന് നമ്മൾ പറയുന്നു അപ്പോൾ രണ്ട് ക്ലസ്റ്ററുകൾ എങ്ങനെ കണ്ടെത്താം ഇവയ്ക്കായി നമുക്ക് വിവര ലേബലുകളൊന്നും ഇല്ലാത്തതിനാലും ഇത് ഒരു സൂപ്പർവൈസ്ഡ് അല്ലാത്ത അൽഗോരിതം ആയതിനാലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നാൽ ആത്യന്തികമായി രണ്ട് ക്ലസ്റ്ററുകൾ ഉണ്ടാകാൻ പോകുന്നു അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ക്രമരഹിതമായ സ്ഥലത്ത് രണ്ട് ക്ലസ്റ്റർ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് അതിനാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും രണ്ട് ക്ലസ്റ്ററുകൾ ആരംഭിക്കാം അല്ലെങ്കിൽ ഈ രണ്ട് ക്ലസ്റ്ററുകൾ ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഡാറ്റയിൽ തന്നെ ചില പോയിന്റുകൾ തിരഞ്ഞെടുക്കാം അതിനാൽ ഉദാഹരണത്തിന് നമ്മൾ റാൻഡം ആയി രണ്ട് പോയിന്റുകൾ ക്ലസ്റ്റർ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തുവെന്ന് പറയാം അതിനാൽ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പോയിന്റ് 1 1 ആണെന്ന് പറയാം അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഏതായിരിക്കും ഗ്രൂപ്പ് 1 എന്താണെന്ന് നമുക്ക് അനുമാനിക്കാം ഗ്രൂപ്പ് 2 ന് ഇവിടെയുള്ള പോയിന്റ് 3 3 തിരഞ്ഞെടുക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം നമ്മൾ ഇത് തിരഞ്ഞെടുത്ത രീതി നിങ്ങൾ മുമ്പത്തെ സ്ലൈഡിലേക്ക് പോയി ഇത് നോക്കുകയാണെങ്കിൽ കാണാം രണ്ട് ക്ലസ്റ്റർ സെന്ററുകളും ഡാറ്റയിൽ നിന്ന് തന്നെയാണ് തിരഞ്ഞെടുത്തത് അതിനാൽ ഒരു ഗ്രൂപ്പ് നിരീക്ഷണമായിരുന്നു മറ്റൊരു ഗ്രൂപ്പ് സെന്റർ നിരീക്ഷണം 8 ആയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡാറ്റയിൽ ഇല്ലാത്ത ഒരു പോയിന്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ ക്ലസ്റ്റർ സെന്ററുകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ സ്വാധീനം ഈ ലെക്ച്ചറിൽ പിന്നീട് നമ്മൾ കാണും ഇപ്പോൾ നമുക്ക് രണ്ട് ക്ലസ്റ്റർ കേന്ദ്രങ്ങളുണ്ട് അപ്പോൾ ഈ അൽഗോരിതം ചെയ്യുന്നത് ഇനിപ്പറയുന്നതാണ് നമ്മളുടെ ഡാറ്റാബേസിലെ ഓരോ ഡാറ്റാ പോയിന്റിനും ഇത് കണ്ടെത്തുന്നു ഈ അൽഗോരിതം ആദ്യം ഓരോ ക്ലസ്റ്റർ കേന്ദ്രങ്ങളിൽ നിന്നും ആ ഡാറ്റ പോയിന്റിന്റെ ദൂരം കണ്ടെത്തുന്നു അതിനാൽ ഈ പട്ടികയിൽ നമുക്ക് ദൂരം ഒന്ന് ഉണ്ട് അത് പോയിന്റ് 1 1 ൽ നിന്നുള്ള ദൂരമാണ് ഞങ്ങൾക്ക് ദൂരം രണ്ട് ഉണ്ട് അത് പോയിന്റ് 3 3 ൽ നിന്നുള്ള ദൂരമാണ് ഇപ്പോൾ ഡാറ്റയിൽ നിന്നുള്ള ആദ്യ പോയിന്റ് തന്നെ 1 1 ആയതിനാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 1 1 ൽ നിന്നുള്ള 1 1 ന്റെ ദൂരം 0 ആണ് അതിനാൽ ദൂരം ഒന്ന് 0 ആണെന്നും ദൂരം രണ്ട് എന്നത് 3 3 ൽ നിന്ന് പോയിന്റ് 1 ന്റെ ദൂരമാണെന്നും നിങ്ങൾക്ക് കാണാം അതുപോലെ ഞങ്ങൾ ഗ്രൂപ്പ് 2 ന്റെ പ്രതിനിധിയായി 3 3 തിരഞ്ഞെടുത്തതിനാൽ നിങ്ങൾ 3 3 പോയിന്റ് ആയ പോയിന്റ് എട്ട് നോക്കുകയാണെങ്കിൽ 3 3 ൽ നിന്ന് 3 3 ന്റെ ദൂരം 0 ആണ് ഇത് 1 1 ൽ നിന്ന് 3 3 ന്റെ ദൂരം ആയിരിക്കും ഇതു പോലെ തന്നെയാണ് മറ്റെല്ലാ പോയിന്റുകൾക്കും അവ 1 1 അല്ലെങ്കിൽ 3 3 അല്ലാത്തതിനാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്ന ദൂരങ്ങൾ ഉണ്ടാകും ഉദാഹരണത്തിന് ഇത് 1 1 ൽ നിന്നുള്ള രണ്ടാമത്തെ പോയിന്റിന്റെ ദൂരവും 3 3 ൽ നിന്നുള്ള രണ്ടാമത്തെ പോയിന്റിന്റെ ദൂരവുമാണ് നിങ്ങൾ മുമ്പത്തെ സ്ലൈഡിലേക്ക് മടങ്ങുകയാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് 1 5 ആണ് അങ്ങനെ പോകുന്നു അതിനാൽ ഈ പോയിന്റുകൾ ഓരോന്നും 1 1 3 3 എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് അതിനാൽ ഓരോ പോയിന്റിനും നിങ്ങൾ രണ്ട് ദൂരം സൃഷ്ടിക്കും ഒന്ന് 1 1 ൽ നിന്ന് മറ്റൊരു ഒന്ന് 3 3 ൽ നിന്ന് ഇപ്പോൾ 1 1 പോലെയുള്ള എല്ലാ പോയിന്റുകളും ഒരു ഗ്രൂപ്പിലും 3 3 പോലെയുള്ള എല്ലാ പോയിന്റുകളും മറ്റൊരു ഗ്രൂപ്പിലായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ ദൂരം ഒരു മെട്രിക് ആയി ഉപയോഗിക്കുന്നു അതിനാൽ ഒരു പോയിന്റ് 1 1 ന് അടുത്താണെങ്കിൽ അത് 1 1 നേക്കാൾ 3 3 പോലെയാണ് അതുപോലെ തന്നെ ഒരു പോയിന്റ് 3 3 ന് അടുത്താണെങ്കിൽ അത് 1 1 നെക്കാൾ 3 3 പോലെയാണ് അതിനാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വളരെ ലളിതമായ ലോജിക്കാണ് അതിനാൽ നിങ്ങൾ ഈ രണ്ട് ദൂരങ്ങളും താരതമ്യം ചെയ്യുക ഏതാണ് ചെറിയ ദൂരം ആ പോയിന്റ് ആ ഗ്രൂപ്പിന് നൽകണം അതിനാൽ ഇവിടെ ദൂരം 1 ദൂരം 2 നേക്കാൾ കുറവാണ് അതിനാൽ ഇത് ഈ നിരീക്ഷണത്തിന്റെ ഗ്രൂപ്പ് 1 ലേക്ക് നിയുക്തമാക്കിയിരിക്കുന്നു അത് പോയിന്റ് 1 1 ആണ് രണ്ടാമത്തെ നിരീക്ഷണം വീണ്ടും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദൂരം 1 ദൂരം 2 നേക്കാൾ കുറവാണ് അതിനാൽ രണ്ടാമത്തേ നിരീക്ഷണവും ഗ്രൂപ്പ് 1 ലേക്ക് നിയുക്തമാക്കിയിരിക്കുന്നു ഈ പ്രക്രിയയിലൂടെ മൂന്നാമത്തേതും നാലാമത്തേതും ഗ്രൂപ്പ് 1 ലേക്ക് നിയോഗിക്കപ്പെടുന്നതും 5 6 7 8 ഗ്രൂപ്പ് 2 ലേക്ക് നിയോഗിക്കപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിക്കും കാരണം ഈ ദൂരങ്ങൾ ഈ ദൂരങ്ങളേക്കാൾ കുറവാണ് അതിനാൽ ചില റാൻഡം പ്രാരംഭ പോയിന്റിൽ ആരംഭിക്കുന്നതിലൂടെ ഈ ഡാറ്റ പോയിന്റുകളെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി ഗ്രൂപ്പുചെയ്യാൻ നമുക്ക് കഴിഞ്ഞു ഈ ഡാറ്റ പോയിന്റുകളാൽ സവിശേഷതയുള്ള ഒരു ഗ്രൂപ്പും ഈ ഡാറ്റ പോയിന്റുകളാൽ സവിശേഷതയുള്ള മറ്റൊരു ഗ്രൂപ്പും ഉണ്ട് ഇപ്പോൾ ഇത് ദ്വിമാനത്തിലാണോ അതോ N അളവുകളിലാണോ എന്നത് പ്രശ്നമല്ല കാരണം ദൂരം ഫോർമുല ലളിതമായി വിവർത്തനം ചെയ്യുന്നു മാത്രമല്ല N അളവിലുള്ള രണ്ട് ക്ലാസുകൾക്കായി നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാം അതിനാൽ N അളവുകളിൽ ഡാറ്റ ദൃശ്യവൽക്കരിക്കുന്നത് പ്രയാസകരമാണെങ്കിലും ഈ കണക്കുകൂട്ടൽ രണ്ട് അല്ലെങ്കിൽ N ഡയമെൻഷൻ ആയാലും ഒരുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ ഗ്രൂപ്പുകളുടെ സ്ഥാനങ്ങൾ റാൻഡം ആയി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഈ ഡാറ്റാ പോയിന്റുകളെല്ലാം ഗ്രൂപ്പ് 1 ലും എല്ലാത്തിനും ഉള്ളതാണെന്ന് എനിക്കറിയാം കേന്ദ്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമ്മളുടെ പക്കലുണ്ട് ഈ ഡാറ്റാ പോയിന്റുകൾ ഗ്രൂപ്പ് 2 ന്റെതാണ് അതിനാൽ ഈ ഗ്രൂപ്പിനുള്ള മികച്ച പ്രാതിനിധ്യം എന്നത് തുടക്കത്തിൽ ഈ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം 1 1 ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ മികച്ച പ്രാതിനിധ്യം ഈ 4 സാമ്പിളുകളുടെയും ശരാശരിയും ഗ്രൂപ്പ് 2 ന്റെ പ്രാരംഭ പ്രാതിനിധ്യവും 3 3 ആയിരിക്കും എന്നാൽ ഗ്രൂപ്പ് 2 ന്റെ മികച്ച പ്രാതിനിധ്യം എല്ലാ പോയിന്റുകളുടെയും ശരാശരി ആയിരിക്കും അതിനാൽ അത് ഘട്ടം 3 ആണ് അതിനാൽ നമ്മൾ പുതിയ ശരാശരി കണക്കാക്കുന്നു ഗ്രൂപ്പ് 1 ന് 1 2 3 4 എന്നീ പോയിന്റുകൾ ഉള്ളതിനാൽ ആ പോയിന്റുകളുടെ ശരാശരി നമ്മൾ ചെയ്യുന്നു x 1 075 ഉം y 1 05 ഉം ആണ് അതുപോലെ ഗ്രൂപ്പ് 2 ന് നമ്മൾ ലേബലുകളുടെ ശരാശരി 5 6 7 8 എന്നീ ഡാറ്റാ പോയിന്റുകളാണ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ശരാശരി കാണും അതിനാൽ 1 1 3 3 എന്നിവയിൽ നിന്ന് ശരാശരി എങ്ങനെ അപ്ഡേറ്റ് ചെയ്തുവെന്ന് ശ്രദ്ധിക്കുക ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ ലളിതമായ ഒരു ഉദാഹരണം തിരഞ്ഞെടുത്തതിനാൽ അപ്ഡേറ്റ് വളരെ ചെറുതാണ് അതിനാൽ ഈ പോയിന്റുകൾ അല്പം നീങ്ങുന്നു ഇപ്പോൾ നിങ്ങൾ അതേ കണക്കുകൂട്ടൽ വീണ്ടും ചെയ്യുക കാരണം എനിക്ക് ഇപ്പോഴും അതേ എട്ട് നിരീക്ഷണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പ് 1 പ്രതിനിധീകരിക്കുന്നത് 1 1 അല്ല 1 075 1 05 എന്നിവയല്ല ഗ്രൂപ്പ് 2 3 95 ഉം 3 145 ഉം ആണ് 3 3 അല്ല അതിനാൽ ഓരോന്നിനും ഈ പോയിന്റുകൾ നിങ്ങൾക്ക് വീണ്ടും ദൂരം 1 ഉം ദൂരം 2 ഉം കണക്കാക്കാം മുമ്പ് ഈ ദൂരം 0 ആയിരുന്നു കാരണം പ്രതിനിധി പോയിന്റ് 1 1 ആയിരുന്നു ഇപ്പോൾ പ്രതിനിധി പോയിന്റ് 1 075 ഉം 1 05 ഉം ആയി മാറിയതിനാൽ ഈ ദൂരം 0 ൽ കൂടുതലല്ല പക്ഷേ അത് ഇപ്പോഴും ഒരു ചെറിയ സംഖ്യ ആണ് അതിനാൽ ഈ പുതിയ മാർഗങ്ങളുള്ള ഈ ഡാറ്റാ പോയിന്റുകളിൽ ഓരോന്നിനും നിങ്ങൾ ഈ ദൂരങ്ങൾ കണക്കാക്കുന്നു ദൂരം 1 ചെറുതാണോ അതോ ദൂരം 2 ചെറുതാണോ എന്ന് കാണുന്നതിന് വീണ്ടും അതേ ലോജിക്ക് ഉപയോഗിക്കുക അതിനെ ആശ്രയിച്ച് നിങ്ങൾ ഈ ഗ്രൂപ്പുകളെ നിയോഗിക്കുന്നു ഇപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ അസൈൻമെന്റ് പുനർനിയമനം നടന്നിട്ടില്ലെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതിനാൽ ഗ്രൂപ്പ് 1 ൽ ഉണ്ടായിരുന്ന സാമ്പിളുകൾ ഗ്രൂപ്പ് 1 ൽ തുടർന്നു ഗ്രൂപ്പ് 2 ൽ ഉള്ള സാമ്പിളുകൾ ഗ്രൂപ്പ് 2 ൽ നിലനിൽക്കും അതിനാൽ പോയിന്റുകൾ മാറിയിട്ടില്ലാത്തതിനാൽ നിങ്ങൾ വീണ്ടും ശരാശരി കണക്കാക്കിയാൽ ശരാശരി മാറ്റം വരൻ പോകുന്നില്ല അതിനാൽ ഇതിന് ശേഷവും ശരാശരി ഒന്നുതന്നെയായിരിക്കും അതിനാൽ നിങ്ങൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ ഒരിക്കലും പുനർനിയമനം ഉണ്ടാകാൻ പോകുന്നില്ല അതിനാൽ ഈ ക്ലസ്റ്ററിംഗ് നടപടിക്രമം നിർത്തുന്നു ഇപ്പോൾ ഈ പുതിയ മീൻ കാരണം ഇത് ഗ്രൂപ്പ് 2 ൽ പോയിരുന്നുവെങ്കിൽ നമുക്ക് ഉദാഹരണമായി പറയാം ഇത് ഗ്രൂപ്പ് 1 ലേക്ക് പോയിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഗ്രൂപ്പ് 1 ലെ എല്ലാ പോയിന്റുകളും ശേഖരിക്കേണ്ടതുണ്ട് എന്നും അതുപോലെ ഗ്രൂപ്പ് 2 ലെ എല്ലാ പോയിന്റുകളും ശേഖരിച്ച് ഒരു പുതിയ ശരാശരി കണക്കാക്കുക എന്നും തുടർന്ന് ഈ പ്രക്രിയ വീണ്ടും ചെയ്യുക ശരാശരി മാറ്റം നിസ്സാരമാകുന്നതുവരെ അല്ലെങ്കിൽ വീണ്ടും അസൈൻമെന്റ് ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഈ പ്രക്രിയ തുടരുക അതിനാൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾക്ക് പ്രക്രിയ നിർത്താം അതിനാൽ ഇത് വളരെ ലളിതമായ ഒരു സാങ്കേതികതയാണ് ഇപ്പോൾ ഈ സാങ്കേതികത വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് 20 വേരിയബിളുകളോ 30 വേരിയബിളുകളോ ഉണ്ടായിരിക്കാവുന്ന ഡാറ്റയുടെ അളവ് പ്രശ്നമല്ല നടപടിക്രമം അതേപടി തുടരും ഡാറ്റയിൽ എത്ര ക്ലസ്റ്ററുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കണം എന്നതാണ് ഒരേയൊരു കാര്യം കൂടാതെ ഇത് മേൽനോട്ടമില്ലാത്ത പഠനമാണെന്നും ഓർക്കുക അതിനാൽ നമുക്ക് യഥാർത്ഥത്തിൽ ലേബലുകളൊന്നും അറിയില്ല എന്നാൽ ഈ പ്രക്രിയയുടെ അവസാനം നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ഈ ഡാറ്റയെ ക്ലാസുകളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ തരംതിരിച്ചിട്ടുണ്ട് കൂടുതൽ വിശകലനത്തിലൂടെ ഈ ഗ്രൂപ്പിനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഗ്രൂപ്പുകളെയും വിശാലമായ വിഭാഗങ്ങളെയും ലേബൽ ചെയ്യാൻ പോലും കഴിഞ്ഞേക്കും കൂടാതെ അത് സാധ്യമല്ലെങ്കിൽ വിശാലമായ വിഭാഗങ്ങൾ ഇവ രണ്ടും സിസ്റ്റം വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവമായിരിക്കാമെന്ന് വിദൂര വീക്ഷണകോണിൽ നിന്നെങ്കിലും നിങ്ങൾക്കറിയാം അതിനാൽ ഒരു എഞ്ചിനീയറിംഗ് വീക്ഷണകോണിൽ നിന്ന് എന്തുകൊണ്ട് ഇതുപോലൊരു കാര്യം പ്രധാനമാണ് പല വേരിയബിളുകളുടെ താപനില മർദ്ദം കോൺസൺട്രേഷൻ അങ്ങനെ പല വേരിയബിളുകൾക്കായുള്ള ഡാറ്റ നൽകൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡാറ്റയിൽ പൂർണ്ണമായും ഒരു ക്ലസ്റ്ററിംഗ് അൽഗോരിതം പ്രവർത്തിപ്പിക്കാം തുടർന്ന് ഈ ഡാറ്റക്ക് രണ്ട് ക്ലസ്റ്ററുകൾ ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയെന്ന് പറയുക അപ്പോൾ ഒരു എഞ്ചിനീയർ ചോദിച്ചേക്കാവുന്ന ഒരു സ്വാഭാവിക ചോദ്യം പ്രക്രിയ സ്ഥിരതയുള്ളതാണെങ്കിൽ എല്ലാ ഡാറ്റാ പോയിന്റുകളും ഇതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതാണ് എന്നാൽ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉള്ളതോ അല്ലെങ്കിൽ സാധാരണമോ ആയ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നതിനാൽ ഈ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉള്ളതിന് ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഒന്ന് സാധാരണവും ഒന്ന് സാധാരണമല്ലാത്തതും ആയതിനാൽ ഏതാണ് സാധാരണ അല്ലാത്തത് ഏതാണ് സാധാരണമായത് എന്നറിയാൻ നിങ്ങൾക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളെക്കുറിച്ചും അന്വേഷണം നടത്താം അതിനാൽ ആ അർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു അൽഗോരിതം വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ വെറും അസംസ്കൃത ഡാറ്റ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ഇവിടെ വ്യാഖ്യാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റ ലേബൽ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നുമില്ലാതെയാണ് എന്നുള്ളതാണ് തുടർന്ന് ഈ ഡാറ്റ എങ്ങനെ ഓർഗനൈസുചെയ്യാം എന്നതിനെ കുറിച്ച് ചില വിലയിരുത്തലുകൾ ആരംഭിക്കുക നിങ്ങൾക്ക് ഈ മൾട്ടി ഡൈമൻഷണൽ ഡാറ്റ നോക്കാം തുടർന്ന് ക്ലസ്റ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം എന്താണെന്ന് നോക്കാം ഈ മൾട്ടി ഡൈമൻഷണൽ ഡാറ്റയിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും എന്നാൽ അത് ഒരു എക്സൽ ഷീറ്റിൽ നോക്കിയാൽ കണ്ടെത്താൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു അൽഗോരിതം ചെയ്തുകഴിഞ്ഞാൽ അത് 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 ഗ്രൂപ്പുകളായി ക്രമീകരിച്ചേക്കാം തുടർന്ന് ഈ ഗ്രൂപ്പുകൾ പ്രോസസ് ഓപ്പറേഷനുകളിലും മറ്റും എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അതിനാൽ ആ അർത്ഥത്തിൽ ഇത് ഒരു പ്രധാന അൽഗോരിതം ആണ് ഇപ്പോൾ നമ്മൾ ക്ലസ്റ്ററുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ എത്ര ക്ലസ്റ്ററുകൾ തിരയാൻ ആഗ്രഹിക്കുന്നുവെന്ന് അൽഗോരിതത്തെ അറിയിക്കണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നു എന്നാൽ എൽബോ മെത്തേഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട് അവിടെ നിങ്ങൾ വ്യത്യസ്ത എണ്ണം ക്ലസ്റ്ററുകളുടെ ക്ലസ്റ്ററിംഗിന്റെ ഫലങ്ങൾ നോക്കുകയും എന്താണ് ക്ലസ്റ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം എന്ന് കണ്ടെത്താൻ ഒരു ഗ്രാഫ് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് അതിനാൽ ഇതിനെ എൽബോ മെത്തേഡ് എന്ന് വിളിക്കുന്നു ഇതിന്റെ ഒരു പ്രകടനം നിങ്ങൾ ഒരു ഉദാഹരണത്തിൽ കാണും ഈ ലെക്ച്ചറിന് ശേഷമുള്ള കേസ് സ്റ്റഡിയിൽ ഈ പ്ലോട്ട് എങ്ങനെയാണെന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒപ്റ്റിമൽ ക്ലസ്റ്ററുകളെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വിലയിരുത്തലുകൾ നടത്താമെന്നും നിങ്ങൾ കാണും അതിനാൽ അടിസ്ഥാനപരമായി നിരവധി ക്ലസ്റ്ററുകളുടെ ഒരു ഫംഗ്ഷനായി വിശദീകരിച്ച ഈ സമീപനത്തെ പെർസെൻന്റെജ് ഓഫ് വേരിയൻസ് എന്ന് വിളിക്കുന്നു പക്ഷേ അവ വളരെ സാധാരണമായ പ്ലോട്ടുകളാണ് നിങ്ങൾക്ക് അവ നോക്കാനും തുടർന്ന് ക്ലസ്റ്ററുകളുടെ ഒപ്റ്റിമൽ എണ്ണം എന്താണെന്ന് കണ്ടെത്താനും കഴിയും അതിനാൽ സൂപ്പർവൈസ്ഡ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഡാറ്റ മനസ്സിലാക്കാൻ തുടങ്ങാമെന്ന് ഞാൻ വിശദീകരിച്ചു എഞ്ചിനീയർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് കാരണം ഇത്തരത്തിൽ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റയുടെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സിഫിക്കേഷൻ ഇത് അനുവദിക്കുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ ഈ ക്ലാസുകൾ മനസിലാക്കാൻ ഒരാൾക്ക് അവരുടെ ഡൊമെയ്ൻ പരിജ്ഞാനം കൊണ്ടുവരാം തുടർന്ന് ചിലത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ജഡ്ജ്മെന്റുകൾ ഉണ്ടോ എന്ന് നോക്കാം K മീൻസിന്റെ രണ്ട് പോരായ്മകൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രാഥമിക ഊഹത്തോട് അൽഗോരിതം വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇത് എന്തുകൊണ്ടാണെന്ന് കാണാൻ വളരെ എളുപ്പമാണ് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം കാണിക്കാം എനിക്ക് ഇതുപോലുള്ള ഡാറ്റ ഉണ്ടെന്ന് പറയാം അതിനാൽ ഞാൻ പ്രാരംഭ ക്ലസ്റ്റർ പോയിന്റുകൾ ഇവിടെയും ആരംഭിക്കുകയാണെങ്കിൽ ഈ ഡാറ്റ പോയിന്റുകളെല്ലാം ഇതിനോട് അടുക്കും എന്ന് അൽഗോരിതം ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ ഇവയെല്ലാം ഈ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യപ്പെടും ഈ ഡാറ്റ പോയിന്റുകളെല്ലാം ഇതിനോട് അടുത്താണ് അതിനാൽ അവരെ ഈ ഗ്രൂപ്പിലേക്ക് നിയോഗിക്കും തുടർന്ന് നിങ്ങൾ ശരാശരി കണക്കാക്കും ഒരിക്കൽ ഒരു ശരാശരി കണക്കാക്കിയാൽ പിന്നീട് വീണ്ടും അസൈൻമെന്റ് സാധ്യമാകില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ക്ലസ്റ്ററുകളും നന്നായി വേർതിരിക്കാനാകുന്നു എന്നിരുന്നാലും ഈ കാര്യം വ്യക്തമാക്കാൻ ഞാൻ ഈ രണ്ട് ക്ലസ്റ്റർ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നുവെന്ന് കരുതുക ഉദാഹരണത്തിന് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ക്ലസ്റ്ററും എല്ലാ ഡാറ്റാ പോയിന്റുകളും ഈ ക്ലസ്റ്റർ സെന്ററും ഈ ഡാറ്റ പോയിന്റുകളും തമ്മിലുള്ള ദൂരം കണക്കാക്കുമ്പോൾ ഈ ഡാറ്റ പോയിന്റുകളെല്ലാം ഇതിനോട് അടുക്കാൻ പോകുന്നു കൂടാതെ ഈ ഡാറ്റാ പോയിന്റുകളെല്ലാം ഈ പോയിന്റിനേക്കാൾ അടുത്തായിരിക്കും അതിനാൽ ക്ലസ്റ്ററിംഗ് കണക്കുകൂട്ടലുകളുടെ ആദ്യ റൌണ്ടിന് ശേഷം മധ്യഭാഗം നീങ്ങാൻ പോലും കഴിയില്ലെന്ന് നിങ്ങൾ കാണും കാരണം ഇതിന്റെയും ഇതിന്റെയും ശരാശരി മധ്യഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കാം അതിനാൽ ഇത് ഒരിക്കലും ചലിക്കില്ല എന്നാൽ ഈ ഡാറ്റാ പോയിന്റുകളെല്ലാം ഈ കേന്ദ്രത്തിന്റേതാണെന്ന് അൽഗോരിതം പറയും ഈ കേന്ദ്രത്തിന് ഒരിക്കലും ഡാറ്റ പോയിന്റുകൾ ഉണ്ടാകില്ല അതിനാൽ ഇത് വളരെ നിസ്സാരമായ ഒരു കേസാണ് എന്നാൽ നിങ്ങളുടെ ക്ലസ്റ്റർ സെന്ററുകൾ എങ്ങനെ ആരംഭിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ ഒരേ അൽഗോരിതം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഫലങ്ങൾ നേടാനാകും അതിനാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത് ഒഴിവാക്കാൻ എളുപ്പമുള്ള സാഹചര്യങ്ങളാണ് എന്നാൽ നിങ്ങൾക്ക് മൾട്ടി ഡൈമൻഷണൽ ഡാറ്റയും ധാരാളം ഡാറ്റയും ഉള്ളപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചത് പോലെ നിങ്ങൾക്ക് ദൃശ്യവത്കരിക്കാൻ കഴിയില്ല അത് എങ്ങനെയെന്ന് കാണാൻ അത്ര വ്യക്തമല്ല അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള വഴികളുണ്ട് പക്ഷേ അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് അതിനാൽ ഓരോ തവണയും നിങ്ങൾ ഒരു അൽഗോരിതം പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രാരംഭ ഊഹങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഈ ഡാറ്റ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു എന്ന് നോക്കുക എന്നതാണ് സാധാരണഗതിയിൽ ഞാൻ ഈ ഡാറ്റ പ്ലോട്ട് ചെയ്യുന്നതിനാൽ ക്ലസ്റ്ററുകൾ പൊതുവെ ഗോളാകൃതിയിലാണെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇത്തരമൊരു ഡാറ്റ എന്റെ പക്കലുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതെല്ലാം ഒരു ക്ലാസിൽ പെട്ടതാണെന്നും ഇതെല്ലാം മറ്റൊരു ക്ലാസിൽ പെട്ടതാണെന്നും നിങ്ങൾക്കറിയാം എന്ന് ഇപ്പോൾ K മീൻസ് ക്ലസ്റ്ററിംഗിന് ഇത്തരത്തിലുള്ള ഡാറ്റയുമായി വൈരുദ്ധ്യമുണ്ടാകാം കാരണം നിങ്ങൾ ഈ ക്ലാസിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും ഒരേ ക്ലാസിൽ ആണെങ്കിലും ഈ പോയിന്റും ഈ പോയിന്റും വളരെ അകലെയാണ് ഈ പോയിന്റിൽ ഈ പോയിന്റിനേക്കാൾ അടുത്താണ് ഈ പോയിന്റ് അതിനാൽ ഒരു സൂപ്പർവൈസ്ഡ് അല്ലാത്ത രീതിയിലാണെങ്കിൽ K മീൻസ് ക്ലസ്റ്ററിംഗ് ഇതിൽ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എവിടെ തുടങ്ങുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത ഫലങ്ങൾ ലഭിച്ചേക്കാം അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ 3 ക്ലസ്റ്ററുകളിൽ ആരംഭിക്കുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള 3 ക്ലസ്റ്ററുകൾ കണ്ടെത്താം അതിനാൽ ഡാറ്റയ്ക്ക് താഴെ വ്യത്യസ്തമായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇവ രണ്ട് വ്യത്യസ്ത ക്ലാസുകളാണെങ്കിൽ സൂപ്പർവൈസ്ഡ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം പ്രവർത്തിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഒരു ക്ലാസിൽ പെട്ടതാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ഇതെല്ലാം ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ഇതെല്ലാം മറ്റൊരു ക്ലാസിൽ പെട്ടതാണ് എന്നും ഇത് അങ്ങനെ പോകുന്നു അതിനാൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം തീർച്ചയായും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മറ്റ് ക്ലസ്റ്ററിംഗ് അൽഗോരിതങ്ങൾ ഇതുപോലെ ഓർഗനൈസുചെയ്ത ഡാറ്റയെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും എന്നാൽ നിങ്ങൾ കെ മീൻസിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവയാണ് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതിനാൽ എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസിനെക്കുറിച്ചുള്ള ഈ കോഴ്സിന്റെ തിയറി ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഒരു കേസ് സ്റ്റഡിയിൽ കെ മീൻസ് ഉപയോഗിക്കുന്നത് വ്യക്തമാക്കുന്ന ഒരു ലെക്ച്ചർ കൂടി ഉണ്ടാകും അതോടെ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വസ്തുക്കളെല്ലാം കവർ ചെയ്തുകഴിഞ്ഞിരിക്കും ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു കോഴ്സ് ആയിരുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഡാറ്റാ സയൻസ് ടെക്നിക്കുകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു അതുവഴി നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യത്തിന്റെ നല്ല ഫ്ലേവറും യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങൾക്ക് ഉടനടി ഉപയോഗിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളും നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ അതിലും പ്രധാനമായി ഇത് ഡാറ്റാ സയൻസിന്റെ ഈ മേഖലയിൽ നിങ്ങളുടെ താൽപ്പര്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളെക്കുറിച്ചും മറ്റും ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ ആകർഷകമായ നിരവധി വശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഡാറ്റാ സയൻസിൽ നിങ്ങൾ പിന്തുടരേണ്ട തരത്തിലുള്ള ചിന്തയ്ക്കും അഭിരുചിയ്ക്കും ഈ കോഴ്സ് നിങ്ങൾക്ക് ഒരു നല്ല അനുഭവം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ നൂതനവും സങ്കീർണ്ണവുമായ മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ സ്വന്തമായി അല്ലെങ്കിൽ ലഭ്യമായ ഇതുപോലുള്ള കോഴ്സുകളിലൂടെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഗണിതശാസ്ത്ര അടിത്തറയും വളരെ പ്രധാനമാണ്